രണ്ടാമത്തെ ലക്ഷ്യം NodeMCU ൽ നിന്നുള്ള ഡാറ്റ നടത്തുന്നു ഇതിലൂടെ നമുക്ക് വായുവിന്റെ ഗുണനിലവാരം എങ്ങനെ കാലാവസ്ഥ എങ്ങിനെ എന്നെല്ലാമുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു ഇനി ഇതിന്റെ കണക്ഷൻ VCC NodeMCU ന്റെ VCC യുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു MQ13 സെൻസറിൽ NodeMCU ലേക്ക് അയയ്ക്കുന്നു ഇതിന്റെ ഒരു ഡെമോ ആണ് സെൻട്രൽ സെർവറിൽ ഈർപ്പം താപനില എന്നിവ കാണിക്കുന്നു CSV ഫയലായി

സെർവറിൽ നൽകുന്നു നമസ്ക്കാരം ഞാൻ എം ടെക് കമ്മ്യൂണിക്കേഷന് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഞാൻ ഇതിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കാം

ബൈക്ക്വീണുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ചലനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നു ആക്സിലെറോമീറ്റർ സെൻസർ അയക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിക്കുന്നു ആരെങ്കിലും പാസ്വേഡ് എത്തുന്നു അതിനാൽ അംഗീകൃത ഉപയോക്താവ് ശരിയായ പാസ്വേഡ് ഓടിക്കാൻ സാധിക്കുകയുള്ളു

ബൈക്ക് ചെയ്തു

ആരെങ്കിലും ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഭീഷണി സന്ദേശം അയക്കും പാസ്വേഡ്സന്ദേശം അയയ്ക്കും ആരെങ്കിലും മൂന്ന് തവണ തെറ്റായ പാസ്സ്വേർഡ് ഓടിക്കാൻ സാധിക്കുകയുള്ളു എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അത് സന്ദേശം അയയ്ക്കുന്നു എനിക്ക് ലഭിച്ച സന്ദേശം ഇതാണ് സുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഒന്നുകിൽ ബൈക്ക് വീണു അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ആരോ തെറ്റായ പാസ്വേഡ് തീഫ് തീഫ് അപകടം നടന്നപ്പോൾ എനിക്ക് ലഭിച്ച സന്ദേശമാണിത് ജിപിഎസ് സെൻസർ അക്ഷാംശവും രേഖാംശവും ഉടമയുടെ ബന്ധുക്കൾക്ക് അയച്ചു നമസ്ക്കാരം എന്റെ പേര് ഗൌരവ് ഗുപ്തഅദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അയയ്ക്കും ഇതിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ബന്ധുവിനെ എത്രയും വേഗം അറിയിച്ച് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു സോഫ്റ്റ്വെയർ പ്രധാന ഘടകം NodeMCU ആണ് ഒരു GPS മൊഡ്യൂളും ആണ് ഇവ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് കാണാം

ഹാർട്ട് ബീറ്റ് സെൻസേർസ് യും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും കാണിക്കാൻ പോകുന്നു ആദ്യമായി ബ്ലിങ്ക് ആപ്പ് വരുന്നു ഈ സെൻസറിൽ വ്യക്തിയുടെ സ്ഥാനവും അയക്കുന്നു ഞങ്ങൾ പരിധി സജ്ജീകരിച്ചത് 75 അല്ലെങ്കിൽ അതിൽ താഴെ എന്നാണ് വേണമെങ്കിൽ അതിലും താഴെയായി സജ്ജീകരിക്കാവുന്നതാണ് ഒരു വ്യക്തി അപകടത്തിൽപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് സാധാരണയേക്കാൾ താഴെയായിരിക്കും അതിനാൽ ആ വ്യക്തി ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് എന്താണെന്നും ഇതിലൂടെ നമുക്ക് കണ്ടെത്താം കൂടാതെ ഈ വിവരം ലഭിച്ചാലുടൻ അദ്ദേഹത്തെ രക്ഷിക്കാം നന്ദി നമസ്ക്കാരം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും സന്ദേശം അയക്കുന്നു ഇവിടെ ഞങ്ങൾ ഫയർ ഇതാണ് projectiitkgpiot എന്ന ടോപ്പിക് ഇവയെല്ലാമാണ് മുറിയിലെ താപനില ഈർപ്പം പുക ഇവയുടെയെല്ലാം സാന്നിധ്യം മനസിലാക്കാൻ ഓട്ടോമാറ്റിക് വഴി ഉടമയ്ക്ക് മുന്നറിയിപ്പും നൽകുന്നു MQTT ഓഫർ ചെയ്ത മുറിയുടെ തീയും നിലവിലെ സാഹചര്യവും അറിയാൻ സാധിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തീ അണച്ചിരിക്കുന്നു ഇതാണ് തീ കണ്ടെത്തുന്നതിനുള്ള ഫ്ലേം സെൻസർ ശബ്ദം പുറപ്പെടുവിക്കുന്നു കൂടാതെ സന്ദേശവും അയക്കുന്നു ഇതിലൂടെ സമീപത്തുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് ലഭിക്കുകയും അവർക്കു രക്ഷപെടാൻ സാധിക്കുകയും ചെയ്യുന്നു ഇവിടെ തീ കത്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി സംവിധാനത്തിലൂടെ ഒരു മുന്നറിയിപ്പ് സന്ദേശം അയക്കുകയും ചെയ്യുന്നു ഇതിലൂടെ മുറിയുടെ അവസ്ഥയും ഈർപ്പവും താപനിലയും എല്ലാം അറിയാൻ സാധിക്കുന്നു ഇവിടെ തീപിടിത്തമുണ്ടായെന്നും അതിന്റെ ജ്വാലയുടെയും താപനിലയുടെയും മൂല്യം എത്രയാണെന്നും കാണിക്കുന്നു ആ മുറിയിൽ മൊബൈലിൽ ഒരു സന്ദേശവും ലഭിക്കും അതായത് തീ പടർന്നു എന്നൊരു സന്ദേശം അവിടെ ലഭിക്കുന്നു തീപിടിത്തമുണ്ടായ മുറിയുടെ അവസ്ഥയെക്കുറിച്ചും പുകയുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്നും ഉടമയെ അറിയിക്കുന്നു നമസ്ക്കാരം ഞാൻ ആകാശ്വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അതിനാൽ ഞാൻ കാണിക്കാൻ പോകുന്നത് RFID അടിസ്ഥാനമാക്കിയുള്ള ഒരു അറ്റന്റൻസ് ആവശ്യങ്ങൾക്കുമായി RFID സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡ്വെയർ ആകുകയും ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്യും

നമ്മൾ ഇവിടെ ഒരു ടൈമർ സംഭരിക്കപ്പെടും MQTT പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഓരോ ഹാജരും പ്രത്യേകം പ്രൊഫസറെ കാലഹരണപ്പെടുമ്പോഴോ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഹാജർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇത് കൂടാതെ ചില ഡാറ്റ അനലിറ്റിക്സ് അയയ്ക്കുകയും ചെയ്യുന്നു ഇതിലൂടെ അദ്ദേഹത്തിന് ഹാജറിന്റെ അടിസ്ഥാനത്തിൽ വിദ്ധ്യാർഥികളെ എളുപ്പത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ഏത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഹാജർ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് പെട്ടന്ന് തന്നെ അറിയാൻ ആകും ഞാൻ ടാഗ്സ് നിരസിക്കുകയാണ് ചെയ്യുന്നത്